ഹലോ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഈ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ കൊളോണിയൽ പ്രീ കൊളോണിയൽ ആഫ്രിക്കൻ പശ്ചാത്തലത്തെക്കുറിച്ച് ഹ്രസ്വമായി പരിചയപ്പെടാൻ ശ്രമിച്ചിരുന്നു കൂടാതെ ആ ലെക്ച്ചറിൽ ഞാൻ നിർദേശിച്ചിരുന്നത് എന്തെന്നാൽ ഈ ഒരു പരിചയം നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാവാൻ സഹായിക്കുമെന്നും അതിൽ നിന്ന് നമുക്ക് കോൺറാടിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസിന്റെ ഒരു കൊണ്ട്രപ്പന്റൽ റീഡിങ് പുറപ്പെടുവിക്കാൻ കഴിയുകയും ചെയ്യും എന്നതായിരുന്നു ഇനി ആഫ്രിക്കൻ പശ്ചാത്തലത്തെ കുറിച്ചുള്ള മുൻ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ സമകാലീന കൊളോണിയൽ വ്യവഹാരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആഫ്രിക്കയും ആഫ്രിക്കക്കാരും പരിഷ്കൃതരായ യൂറോപ്പ്ക്കാരുടെ സഹായത്താൽ വിശിഷ്ട ഗുണങ്ങൾ നേടാൻ കാത്തിരിക്കുന്ന ഒരു വംശമല്ല എന്നതാണ് വാസ്തവത്തിൽ ആഫ്രിക്കക്കാർക്ക് കാലങ്ങളായുള്ളതും സമ്പന്നവുമായ ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ടെന്ന് മാത്രമല്ല വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഇതേ ആഫ്രിക്കയിൽ കണ്ടെത്താനുമുണ്ട് അവർക്ക് ഈ സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല അവർ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സമ്പന്നമാവുകയും അവർ രാഷ്ട്രീയ ഭരണത്തിന്റെ ഭരണഘടനാപരമായ രൂപങ്ങളിൽ പരീക്ഷണം നടത്തുകയും ചെയ്തു ഇത് 1880 കളിൽ യൂറോപ്പുകാർ വന്ന് മുഴുവൻ ഭൂഖണ്ഡത്തെയും തങ്ങളുടെ കോളനികളാക്കി പ്രഖ്യാപിക്കുന്നതുവരെ തുടർന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർത്തലാക്കിയ അടിമകച്ചവടത്തിനു ശേഷം ആഫ്രിക്കൻ സമൂഹങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങളെ ഇത് അട്ടിമറിച്ചു നിങ്ങൾ കോൺറാടിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃതിയിൽ ആഖ്യാതാവായിട്ടുള്ള മാർലോ കോളനിവൽക്കരിക്കപ്പെട്ട ആഫ്രിക്കക്കാരോട് അനുഭാവം പുലർത്തുന്ന ഒരു നിലപാടിൽ നിന്നു കൊണ്ടുള്ള ഒരു കഥയാണ് വിവരിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരിക്കലും ആഫ്രിക്കക്കാർ അവരെ കീഴടക്കിയ യൂറോപ്പ്ക്കാരെ പോലെ പരിഷ്കൃതരും പക്വതയുള്ളവരുമാണെന്ന വസ്തുത മുഖവിലക്കെടുക്കുന്നില്ല അദ്ദേഹം അവിടുത്തെ തദ്ദേശീയരായ പാവപ്പെട്ട അപരിഷ്കൃതരുടെ ദുരവസ്ഥയാണെന്ന് തോന്നിയതിനോട് സഹതപിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ആഫ്രിക്കക്കാർ അപരിഷ്കൃതരായ ക്രൂരന്മാരാണെന്നുള്ള യൂറോപ്യൻ കോളനിക്കാരുടെ തെറ്റായ അനുമാനത്തെ ചോദ്യം ചെയ്യാൻ നിന്നില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായി കോംഗോയിലെയോ യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ സവിശേഷതയായിരുന്ന അടിച്ചമർത്തൽ പ്രക്രിയകളെ മാർലോ വിമർശിക്കുന്നുണ്ടെങ്കിലും കുർട്സിനെ കണ്ടെത്തുന്നതിനായി നടത്തിയ കൊങ്കോയിലൂടെയുള്ള തന്റെ യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ആഫ്രിക്കക്കാരെ നേരിട്ട് നോക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല താൻ കണ്ടുമുട്ടുന്ന ആഫ്രിക്കക്കാർ തന്റെ സഹജീവികളാണെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലാക്കാനാകുന്നില്ല അതുപോലെ ഏതൊരു വെളുത്ത വംശജനും തൊലി വെളുത്ത മനുഷ്യനും ഉണ്ടെന്ന് വാദിക്കുന്ന അതേ അന്തസ്സ് ഇവരും അർഹിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈയൊരു വാദം ഏറ്റവും ശക്തമായി നൈജീരിയൻ നോവലിസ്റ്റായ ചിനുവ അച്ഛബെ എഴുതിയ ഇമേജ് ഓഫ് ആഫ്രിക്കയിൽ മുന്നോട്ടു വച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ലക്ച്ചറിൽ നമ്മൾ ചിനുവ അച്ഛബെയുടെ പ്രശസ്ത നോവലായ 'തിങ്ങ്സ് ഫാൾ അപ്പാർട്ട്' ചർച്ച ചെയ്യുന്നതിനു മുമ്പായി തന്റെ ഇമേജ് ഓഫ് ആഫ്രിക്ക എന്ന ലേഖനത്തിലുള്ള കോൺറാടിന്റെ നോവലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനം നമ്മൾ ചർച്ച ചെയ്യും ലേഖനത്തിൽ നിന്ന് നോവലിലേക്ക് കടക്കുന്നത് വളരെ സുഖമമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു കാരണം കോൺറാട് ആഫ്രിക്കയേയും ആഫ്രിക്കക്കാരെയും തന്റെ ഹാർട്ട് ഓഫ് ഡാർക്നസ്സിൽ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അച്ഛബേയുടെ വിമർശനം നമുക്ക് അച്ഛബേയുടെ സ്വന്തം നോവലായ തിങ്സ് ഫാൾ അപ്പാർട്ട് എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചും ആ നോവൽ ആഫ്രിക്കൻ സമൂഹത്തെയും ജനങ്ങളെയും എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നതിനെ കുറിച്ചുമുള്ള ചില സുപ്രധാന സൂചനകൾ നൽകുന്നു ഇനി ഇമേജ് ഓഫ് ആഫ്രിക്ക എന്ന ലേഖനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ലേഖനത്തിൽ അച്ഛബെ ഉന്നയിക്കുന്ന അടിസ്ഥാന വാദം യൂറോപ്യൻ കോളനിക്കാർ ആഫ്രിക്കയുടെ പ്രതിച്ഛായ നിർമ്മിച്ചെടുത്ത രീതിയെ സ്വാധീനിച്ചത് അവർക്കകത്തുണ്ടായിരുന്ന ഒരു പ്രധാന മനശാസ്ത്രപരമായ ആവശ്യമാണ് എന്നതാണ് ആഫ്രിക്കയേയും ആഫ്രിക്കക്കാരെയും പ്രാകൃതരും അപരിഷ്കൃതരും ക്രൂരരും കിരാതരുമായി ചിത്രീകരിക്കുന്നതിലൂടെ യൂറോപ്യൻ കോളനിക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവർ സ്വയം ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും അവരിൽ നിന്ന് വ്യത്യസ്തരായി ഇവർക്ക് തിളങ്ങാനാവുകയും ചെയ്യുന്നു എന്നതാണ് അച്ചബെയുടെ വാദം ആഫ്രിക്കക്കാർ അപരിഷ്കൃതരും കിരാതരുമാണെങ്കിൽ അവർക്ക് വിപരീതമായി യൂറോപ്പുകാർ നാഗരികതയുടെ വെളിച്ചത്തിന്റെ വാഹകരും അത് ഉയർത്തിപ്പിടിക്കുന്നവരെയും പോലെയാണ് നില നിന്നിരുന്നത് അതിനാൽ കൊളോണിയൽ വ്യവഹാരത്തിലൂടെ നിർമ്മിച്ചെടുത്ത ആഫ്രിക്കയുടെ ഒരു ചിത്രം തീർത്തും പ്രതികൂലമായിരുന്നു അച്ഛബേയുടെ അഭിപ്രായത്തിൽ ഇത് യൂറോപ്പിനും യൂറോപ്പ്ക്കാർക്കും ഒരു പോസിറ്റീവ് പ്രതിച്ഛായ സൃഷ്ടിക്കാനും സഹായിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്വാർഡ് സെയ്ദിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇതേ നെഗറ്റീവ് പോസിറ്റീവ് ബൈനറി ഓറിയന്റലിസ്റ്റ് വ്യവഹാരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് നമ്മൾ കണ്ടു ഇനി ഇമേജ് ഓഫ് ആഫ്രിക്ക എന്ന ലേഖനത്തിൽ അച്ചബേ ആരോപിക്കുന്നത് എന്തെന്നാൽ യൂറോപ്പുകാർ കോളനിവൽക്കരിച്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് എഴുതുന്ന മറ്റുള്ള യൂറോപ്യൻ എഴുത്തുക്കാരെ പോലെ കോൺറാടും ഈ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ബൈനറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൊളോണിയൽ വ്യവഹാരത്തെ കുറിച്ചുള്ള കോൺറാടിന്റെ വിമർശനം വെറും ഭാഗികമായ വിമർശനമായിരുന്നു എന്തുകൊണ്ടാണത് കാരണം അച്ഛബെയുടെ വാദത്തിൽ തന്റെ വിമർശനങ്ങൾക്കിടയിലും കോൺറാട് ആഫ്രിക്കയെ കുറിച്ചുള്ള കൊളോണിയൽ വ്യവഹാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം പങ്കുവെച്ചിരുന്നു എന്താണ് ആ അടിസ്ഥാന ആശയം ആ ആശയം തീർച്ചയായിട്ടും ആഫ്രിക്കക്കാർ യൂറോപ്പ്ക്കാരെക്കാൾ കീഴാളരായിട്ടുള്ള ജനങ്ങളാണ് എന്നുള്ളതാണ് അതിനാൽ കോൺറാടിന്റെ വിമർശനങ്ങൾക്കിടയിലും ആഫ്രിക്കക്കാർ കീഴാളർ ആയിട്ടുള്ള മനുഷ്യരാണെന്ന ധാരണയെ കോൺറാടിന് ഇപ്പോഴും ഒഴിവാക്കാനായിട്ടില്ല 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ്' എന്ന നോവലിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ പക്ഷപാതത്തെ അച്ചേബെ വെളിപ്പെടുത്തുന്നത് നോവലിലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു കൊണ്ടാണ് അതിൽ മാർലോ കോംഗോ നദിയിലൂടെയുള്ള തന്റെ യാത്രയ്ക്കിടെ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആഫ്രിക്കൻ ഗ്രാമജീവിതം പുഴക്കരയിൽ ചുരുളഴിയുന്നുണ്ട് താൻ കാണുന്നതിനെ മാർലോ വിവരിക്കുന്നത് ഇങ്ങനെയാണ് "suddenly as we struggled round a bend there would be a glimpse of rush walls of peaked grass roofs a burst of yells a whirl of black limbs a mass of hands clapping of feet stamping of bodies swaying of eyes rolling under the droop of heavy and motionless foliage The steamer toiled along slowly on the edge of a black and incomprehensible frenzy The prehistoric man was cursing us praying to us welcoming us - who could tell we glided past like phantoms wondering and secretly appalled as sane men would be before an enthusiastic outbreak in a madhouse " ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാർലോ താൻ ബോട്ടിൽ നിന്ന് കാണുന്ന ആഫ്രിക്കക്കാരെ പൌരാണിക മനുഷ്യരായിട്ടാണ് തരം തിരിക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് മാർലോ ഒരു യൂറോപ്യൻ എന്ന നിലയിൽ സ്വയം ഒരു ആധുനിക പരിഷ്കൃത മനുഷ്യന്റെ പ്രതിനിധിയായി കണക്കാക്കുന്നു എന്നതാണ് ഈയൊരു മേധാവിത്വത്തിന്റെ ആനുകൂല്യത്തിൽ നിന്നുകൊണ്ടാണ് മാർലോ ആധുനിക മനുഷ്യരായി ഇനിയും പരിണമിച്ചിട്ടില്ലാത്ത പൌരാണിക മനുഷ്യരെന്ന നിലയിൽ ആഫ്രിക്കക്കാരെ തരം തിരിക്കുന്നത് വാസ്തവത്തിൽ ആഫ്രിക്കക്കാരെ കുറിച്ച് ഇവിടെ നൽകിയിട്ടുള്ള വിവരണത്തിൽ അവരെ സമ്പൂർണ്ണ മനുഷ്യരായി പോലും വർണ്ണിക്കുന്നില്ല മറിച്ച് അവരെ ശാരീരിക ശകലങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് കറുത്ത കൈക്കാലുകൾ ചവിട്ടി ഉറപ്പിച്ച കാലുകൾ ഉരുണ്ട കണ്ണുകൾ തുടങ്ങിയവ ഇവിടെ ഒരു ആഫ്രിക്കൻ പുരുഷനെയോ സ്ത്രീയെയോ അവന്റെ അല്ലെങ്കിൽ അവളുടെ പൂർണ്ണതയിൽ ഒരിക്കലും കാണാൻ കഴിയില്ല ഒരു ആഫ്രിക്കൻ മനുഷ്യനിൽ പൂർണമായ ഒരു മനുഷ്യ സ്വത്വം അസാധ്യമാണെന്ന നിലയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് കൊളോണിയൽ വ്യവഹാരത്തിന്റെ മുഖ്യധാരാ ബൈനറികളായ പോസിറ്റീവ് നെഗറ്റീവ് പക്വത പക്വതയില്ലായ്മ പരിഷ്കൃതം അപരിഷ്കൃതം എന്നിവയെ നമ്മിലേക്ക് തിരികെ കൊണ്ടുവരുന്നു കൊളോണിയൽ വ്യവഹാരത്തിൽ നിന്ന് നോവൽ ഉൾക്കൊണ്ട ഈ ബൈനറി ചിന്താരീതി മാർലോ സാധാരണയായുള്ള ദൈനംദിന ആഫ്രിക്ക ഗ്രാമീണ ജീവിതത്തെ ചിത്രീകരിക്കുന്ന രീതിയിലും പ്രകടമാണ് ഈ ഒരു ഉദ്ധരണിയിൽ നമ്മൾ കണ്ടത് പോലെ ഒരു ഭ്രാന്താലയത്തിന്റെ ഗഹനമായ ഉന്മാദം സവിശേഷതയായിട്ടുള്ള ഒന്നിനെ പോലെയാണ് മാർലോ ഇത് ചെയ്യുന്നത് ഒരു യൂറോപ്യൻ എന്ന നിലയിൽ മാർലോ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കരുതുന്ന വിവേകത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഭ്രാന്തൻ ഉന്മാദമാണിത് തന്റെ ഇമേജ് ഓഫ് ആഫ്രിക്ക എന്ന ലേഖനത്തിലൂടെ കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിനെ' അച്ഛബേ വിമർശിച്ചതിലെ ഒരു വിവാദപരമായ കാര്യം എന്തെന്നാൽ അദ്ദേഹം കൊളോണിയൽ പക്ഷപാതം മാർലോയ്ക്കും മാർലോയുടെ ആഫ്രിക്കയെ കുറിച്ചുള്ള വിവരണത്തിനും മാത്രമായിട്ടല്ല ആരോപിച്ചിരിക്കുന്നത് കോൺറാടിന്റെ മേലിലും ആരോപിച്ചിട്ടുണ്ട് എന്നതാണ് അച്ഛബേയുടെ അഭിപ്രായത്തിൽ കോൺറാടിന്റെ മനസ്സിലുള്ള വംശീയതയാണ് അദ്ദേഹത്തെ കൊളോണിയലിസത്തിന്റെ ക്രൂരതകൾക്കെതിരെ വാദിക്കുമ്പോൾ പോലും ആഫ്രിക്കക്കാരെ തന്റെ സഹജീവികൾ ആയി കാണാനും ചിത്രീകരിക്കാനും അനുവദിക്കാത്തത് ഈയൊരു വാദത്തിൽ ഒരു പ്രശ്നമുണ്ട് ഇതിന്റെ പ്രശ്നം ഇത് മാർലോയേയും കൊൺറാഡിനെയും ഒന്നിച്ചു ചേർക്കുന്നു എന്നതാണ് ഒരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ അതായത് മാർലോയുടെ പ്രത്യയശാസ്ത്രപരമായ വിശേഷണങ്ങൾ എഴുത്തുകാരൻ കോൺറാടിന്റെതാണെന്ന് ആരോപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു എതിർവാദം സാധ്യമാണ് നിങ്ങൾക്ക് ഒരു വംശീയ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനും നിങ്ങൾ സ്വയം ഒരു വംശീയ വാദി ആകേണ്ടതില്ല എന്നതാണ് ആ എതിർവാദം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വംശീയ ലോകവീക്ഷണമുള്ള മാർലോയെ പോലുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കോൺറാഡ് തന്നെ ഒരു വംശീയ വാദി ആകേണ്ടതില്ല കപ്പലിൽ മാർലോയെ പരിചയപ്പെടുത്തുന്ന നെല്ലി എന്ന ആഖ്യാതാവ് ഉണ്ടായിട്ടും നമ്മൾ മാർലോയെ മാത്രമാണ് കേൾക്കുന്നത് നോവലിൽ വളരെ കുറഞ്ഞ സമയം നമ്മൾ കണ്ടുമുട്ടുന്ന ആദ്യത്തെ ആഖ്യാതാവിനു പുറമേ മാർലോയുടെ ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് മാർലോയുടെ ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ആഫ്രിക്കയെ വിവരിക്കുന്നതും മാർലോയുടെ ശബ്ദമാണ് ഈ ആഖ്യാനത്തിലേക്ക് തന്റെ ശബ്ദം അവതരിപ്പിക്കാതിരിക്കാൻ കോൺറാട് വളരെ ശ്രദ്ധാലുവായിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും അച്ഛബേയുടെ ലേഖനത്തിൽ കോൺറാടിന്റെ വംശീയതയെ കുറിച്ച് വളരെ ബോധ്യപ്പെടുത്തുന്ന സംഗതികൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് വിടുന്നു നിങ്ങൾ ഈ ലേഖനം വായിച്ച് ഈ വിഷയത്തെക്കുറിച്ച് തീരുമാനിക്കൂ ഒരു തുറന്ന ചോദ്യമായി ഇതിനെ ഞാൻ വിടുന്നു ഇനി ലേഖനവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ അച്ഛബേ ഇമേജ് ഓഫ് ആഫ്രിക്ക എന്ന ലേഖനത്തിൽ മറ്റൊരു രസകരമായ വാദം കൂടി ഉന്നയിക്കുന്നുണ്ട് ഇതും കൂടി പരാമർശിച്ചുകൊണ്ട് ലേഖനത്തെക്കുറിച്ചുള്ള ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കാം ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിൽ അവതരിപ്പിച്ചിട്ടുള്ള ആഫ്രിക്കയുടെയും ആഫ്രിക്കക്കാരുടെയും വിരൂപ ചിത്രം വെളിപ്പെടുത്തുമ്പോൾ അച്ചബേ അതിനെ തീവ്രമായി എതിർക്കുന്ന ഒരു പരിഷ്കൃത ആഫ്രിക്കയുടെ ചിത്രമാണ് സ്ഥാപിക്കുന്നത് അപ്പോൾ ഒരുവശത്ത് അദ്ദേഹം നോവലിൽ ആഫ്രിക്കയെ എങ്ങനെ ഒരു അപരിഷ്കൃത ഇടമായും കിരാതന്മാരും പ്രാകൃതരും വസിക്കുന്ന ഇടമായും അവതരിപ്പിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹം ആഫ്രിക്കയുടെ മറ്റൊരു ചിത്രം പരിഷ്കൃതമായ ആഫ്രിക്കയുടെ ചിത്രം അവതരിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ അതായത് ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ്' പ്രസിദ്ധീകരിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം യൂറോപ്യൻ കലാലോകം ക്യൂബിസത്തിന്റെയും ക്യൂബിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും വരവോടെ എങ്ങനെയാണ് വിപ്ലവകരമായത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഈ ക്യൂബിസവും ക്യൂബിസ്റ്റ് പ്രസ്ഥാനവും ആഫ്രിക്കൻ കലയിൽ നിന്ന് പ്രത്യേകിച്ച് ഫാങ് ജനതയിൽ നിന്നും മാസ്കിൽ നിന്നും വലിയ രീതിയിൽ പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു ഇവിടെ സ്ലൈഡിൽ ഫാങ് ജനത സൃഷ്ടിച്ച മാസ്കിന്റെ ഒരു ഉദാഹരണം കാണാം ആഫ്രിക്കക്കാർ നിർമ്മിച്ച ഈ മാസ്കുകൾ പാബ്ലോ പിക്കാസോ ഹെൻറി മാറ്റസെ തുടങ്ങിയ പ്രശസ്തരായ പാശ്ചാത്യ കലാകാരന്മാർക്ക് ഒരു പുതിയ കലാപരമായ ശൈലി നൽകി വിരോധാഭാസമെന്ന് പറയട്ടെ ആധുനിക യൂറോപ്പിലെ അവന്ത് ഗാർഡ് പ്രസ്ഥാനത്തിന് പ്രചോദനമായ ഈ ഫാങ് ജനത 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ്' നോവലിൽ ഒരു ഭ്രാന്താലയത്തിലെ ക്രൂര നിവാസികളായി വിശേഷിപ്പിക്കപ്പെട്ട കോംഗോ മേഖലയിലെ താമസക്കാരായിരുന്നു പക്ഷേ ഈ വിരോധാഭാസം തന്നെയാണ് അച്ചബെ ഊന്നിപ്പറയുന്നത് ആഫ്രിക്കയുടെ മറ്റൊരു ചിത്രം സാധ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പരിഷ്കൃതരായ ആഫ്രിക്കയുടെ ചിത്രം പരിഷ്കൃതം എന്ന് മാത്രമല്ല ആധുനിക പാശ്ചാത്യ ലോകത്തിന്റെ സംസ്കാരത്തെ ആഴത്തിൽ സ്വാധീനിക്കാൻ പര്യാപ്തമായത്ര പരിഷ്കൃതരായ ഒരു ആഫ്രിക്കയുടെ ചിത്രം ഈ പരിഷ്കൃതമായ ആഫ്രിക്കയുടെ ചിത്രം കോൺറാടിന്റെ 'ഹാർട്ട് ഓഫ് ഡാർക്നെസ്സ്' എന്ന നോവലിൽ എങ്ങും കാണുന്നില്ല എന്നതാണ് അച്ഛബേയുടെ അടിസ്ഥാന വാദം തീർച്ചയായും അച്ഛബേ വാദിക്കുന്നത് പോലെ പരിഷ്കൃത ആഫ്രിക്കയുടെ ഈ ചിത്രം കാണുന്നില്ല ഈയൊരു നോവലിൽ മാത്രമല്ല പടിഞ്ഞാറിൽ ഉൽഭവിച്ച ആഫ്രിക്കയെ കുറിച്ചുള്ള ഒരൊറ്റ വ്യവഹാരങ്ങളിലും ഇത് കാണുന്നില്ല ചിനുവ അച്ഛബേയുടെ 1958 ലെ നോവലായ 'തിങ്സ് ഫാൾ അപ്പാർട്ട്' ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തിനകത്ത് ആഫ്രിക്കയെ കിരാതരും ദുഷിച്ചവരുമായി അവതരിപ്പിക്കുന്ന സ്ഥിരരൂപമായിട്ടുള്ള ഇമേജ് തകർക്കാനുള്ള ആദ്യ ശ്രമങ്ങളിൽ ഒന്ന് ഈ നോവലിലേക്കാണ് ഞാൻ ഇനി തിരിയുന്നത് പക്ഷെ 'തിങ്സ് ഫാൾ അപ്പാർട്ടിനെ' കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിന്റെ രചയിതാവായ ചിനുവ അച്ഛബേയെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പരിചയപ്പെടുത്താം നമ്മൾ അച്ഛബേയെ കുറിച്ച് കുറെയായി സംസാരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ കാലഘട്ടം 1930 മുതൽ 2013 വരെയാണ് അദ്ദേഹം ജനിച്ചത് നൈജീരിയയിൽ ഇഗ്ബോ ഗോത്രം എന്ന ഗോത്രത്തിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ക്രിസ്ത്യൻ മിഷനറി സ്കൂളിൽ അധ്യാപകനായിരുന്നു അച്ഛബേയും ഈ ഒരു സ്കൂളിന്റെ ഉത്പന്നമാണ് ഇത് ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ് കാരണം ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ലഭിച്ച പ്രത്യേക വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സാഹിത്യത്തിലെ ക്ലാസ്സിക്കുകളെ കുറിച്ചുള്ള ധാരണ നൽകിയത് പിന്നീട് ആഫ്രിക്കൻ ജനതയെ കുറിച്ച് അദ്ദേഹം തന്റെ നോവലുകളിൽ എഴുതുമ്പോൾ അദ്ദേഹം ആഫ്രിക്കയേയും ആഫ്രിക്കക്കാരെയും കുറിച്ചാണ് എഴുതുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ നോവലുകളിൽ വ്യാപകമായി ബ്രിട്ടീഷ് ഗ്രന്ഥങ്ങളിലെയും പശ്ചാത്യ ക്ലാസ്സിക്കുകളിലെയും റഫറൻസുകൾ അടങ്ങിയിരുന്നു ഇത് 'തിങ്സ് ഫാൾ അപ്പാർട്ടിൽ' പോലും വ്യകതമാണ് അതിന്റെ തലക്കെട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ തലക്കെട്ട് ഡബ്ല്യൂ ബി യീറ്റ്സിന്റെ W B Yeats ദി സെക്കന്റ് കമിങ് എന്ന വളരെ പ്രശസ്തമായ ഒരു കവിതയിൽ നിന്നുള്ളതാണ് തിങ്സ് ഫാൾ അപ്പാർട്ട് എന്നത് അതിലെ ഒരു വരിയിൽ നിന്നുള്ളതാണ് കുറച്ചു കഴിഞ്ഞ് ഈയൊരു റഫറൻസിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ 1958 ലാണ് തിങ്സ് ഫാൾ അപ്പാർട്ട് പ്രസിദ്ധീകരിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ സ്വാധീനശക്തിയുള്ള ഒരു നോവലാണ് ഇത് ഹൈന്മാൻ എന്ന ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനമാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇത് വളരെ പ്രധാനമാണ് കാരണം ഹൈൻമാൻ പിന്നീട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സീരീസ് എന്ന പേരിൽ വളരെ സ്വാധീനമുള്ള ഒരു പരമ്പര പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുകയും അതിൽ സ്വാതന്ത്ര്യാനന്തരമുള്ള നിരവധി ആഫ്രിക്കൻ എഴുത്തുകാരുടെ രചനകളെ ഇംഗ്ലീഷ് ലോകത്ത് പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ ആഫ്രിക്കൻ റൈറ്റേഴ്സ് സീരീസിന്റെ ആദ്യ ഉപദേശക എഡിറ്ററായി ചിനുവ അച്ഛബേ പ്രവർത്തിച്ചു ആകസ്മികമായി ഈ ആഫ്രിക്കൻ റൈറ്റേഴ്സ് സീരീസിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം കൂടിയാണ് 'തിങ്ങ്സ് ഫാൾ അപ്പാർട്ട്' തന്റെ ആദ്യ നോവലിന് പുറമേ അച്ഛബേ തന്റെ മറ്റു നോവൽസാഹിത്യ രചനകൾക്കും പേരുകേട്ടയാളാണ് 'തിങ്സ് ഫാൾ അപ്പാർട്ട്' പ്രസിദ്ധീകരിച്ചത് 1958 ലാണ് പിന്നീട് 1960 ൽ നോ ലോങ്ങർ അറ്റ് ഈസും 1964 ൽ ആരോ ഓഫ് ഗോഡും 1966 ൽ എ മാൻ ഓഫ് ദി പീപ്പിളും 1987 ൽ ആന്റ് ഹിൽസ് ഓഫ് സാവന്നയും പ്രസിദ്ധീകരിച്ചു ഇനി നമുക്ക് തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന നോവലിലേക്ക് തിരിയാം അത് ആഫ്രിക്കൻ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ആഫ്രിക്കയുടെ കൊളോണിയൽ ചരിത്രമെഴുതുന്ന പദ്ധതിയെ എങ്ങനെ സമീപിക്കുന്നു എന്നും ഹാർട്ട് ഓഫ് ഡാർക്ക്നെസിൽ നമ്മൾ കണ്ട അപരിഷ്കൃത ആഫ്രിക്കയുടെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി പരിഷ്കൃത ആഫ്രിക്കയുടെ ചിത്രം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നതും നമുക്ക് നോക്കാം ഈ ഒരു പദ്ധതി മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ല മാർഗ്ഗം കോൺറാഡ്ന്റെ ഹാർട്ട് ഓഫ് ഡാർക്നസ്സിലെ സീനിലേക്ക് മടങ്ങുക എന്നതാണ് അവിടെ മാർലോ ബോട്ടിൽ ഇരുന്ന് കൊണ്ട് കരയിലുള്ള ആഫ്രിക്കക്കാരുടെ ഉന്മാദമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തെപ്പോലെ വിവേകമുള്ള ഒരു മനുഷ്യന് ഒരു യൂറോപ്പ്ക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭ്രാന്താലയം ആയിട്ടാണ് അദ്ദേഹം ഈ ദേശത്തെക്കുറിച്ച് കരുതുന്നത് മാർലോ ആണ് ഈ രംഗം വിവരിക്കുന്നത് എന്നതിനാൽ നമ്മൾ ഉടനെ സ്വമേധയാ ആ ബോട്ടിൽ അദ്ദേഹത്തിന്റെ അരികിലുള്ള ആളായി പ്രതിഷ്ഠിക്കുന്നു മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് അതായത് യൂറോപ്പ്യൻ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഈ കാഴ്ച കാണാൻ തുടങ്ങും എന്നാൽ നമ്മൾ നമ്മുടെ സ്ഥാനം മാറ്റിയാൽ എന്താണ് സംഭവിക്കുക നമ്മൾ ഇതിനെ ഒരു ആഫ്രിക്കൻ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാലോ അതായത് ഈ ഉന്മേഷകരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആ നദിയുടെ തീരത്തു നിന്ന് കൊണ്ടാണെങ്കിലോ കൊളോണിയൽ ഇടപെടലിനെക്കുറിച്ച് ഇത് നമുക്ക് വ്യത്യസ്തമായ ഒരു ഉൾക്കാഴ്ച നൽകുമോ അച്ചബേയുടെ നോവൽ നമ്മെ അതിന് സഹായിക്കുന്നു ഹാർട്ട് ഓഫ് ഡാർക്ക്നസ്സിൽ നിന്ന് എതിരായി നമ്മുടെ സ്ഥാനം മാറാൻ സഹായിക്കുന്നു കാരണം ഇത് നമ്മെ ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിലേക്ക് കൊണ്ട് പോകുന്നു അച്ഛബേയുടെ നോവലിലെ ഉമൊഫിയ എന്ന പേരിലറിയപ്പെട്ട ഗ്രാമം നൈജീരിയയിലുള്ളതാണ് കോംഗോയിലല്ല ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഷേഡ് ചെയ്ത പ്രദേശം ഇന്നത്തെ നൈജീരിയ ആണ് ആഫ്രിക്കൻ ഗ്രാമത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആദ്യ കാര്യം ഗ്രാമീണരുടെ ഉൻമാദ പ്രവർത്തനങ്ങൾ കിരാതമായിട്ടോ പരസ്പരബന്ധമില്ലാത്ത ഭ്രാന്തായിട്ടോ തോന്നുന്നില്ല എന്നതാണ് ഇതിനു കാരണമെന്തെന്നാൽ ആഫ്രിക്കൻ ഗ്രാമത്തിലെ ഇതേ രംഗം ഒരു പുറം നാട്ടുകാരനായ മാർലോ നോക്കി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും ആകർഷണീയമായ ഒരു ആഫ്രിക്കൻ ലോക വീക്ഷണമാണ് നമുക്ക് മുന്നിൽ അച്ചബേയുടെ നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതു കൊണ്ടുതന്നെ അവിടുത്തെ ഗ്രാമത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെയുള്ള ഒരാൾ എന്ന രീതിയിലാണ് നാം കാണുന്നത് അതിനാൽ അച്ഛബേയുടെ തിങ്ങ്സ് ഫാൾ അപ്പാർട്ട് നോവലിലെ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങളിൽ അദ്ദേഹം പ്രീ കൊളോണിയൽ ഇഗ്ബോ ഗ്രാമ സമൂഹത്തെ ഒരുമിച്ചു നിർത്തുന്ന വിവിധ ആചാരങ്ങളെയും പ്രവർത്തനങ്ങളെയും കാര്യ താൽപര്യത്തോടു കൂടി വിവരിക്കുന്നു ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് ഇഗ്ബോ ഗ്രാമത്തിന്റെ ഹൈറാർക്കിയൽ ഘടന മനസ്സിലാകുന്നു ഉമൊഫിയ ഒരു ഇഗ്ബോ ഗ്രാമമാണ് അതിന്റെ ഹൈറാർക്കിയൽ ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു പുരുഷന്മാരുടെ ശാരീരിക കരുത്തിന് ഈ സമൂഹം നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ആ കരുത്ത് സമുദായത്തിലെ ആളുകൾ തമ്മിലുള്ള പതിവ് ഗുസ്തിമത്സരങ്ങളിലൂടെ എങ്ങനെ പരീക്ഷിക്കപ്പെടുന്നുവെന്നും നമുക്ക് മനസ്സിലാവും ഗ്രാമീണരുടെ വേനൽ തോറുമുള്ള ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ വിളവെടുപ്പ് ചക്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ചേന കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ ഈ അഞ്ച് അധ്യായങ്ങൾക്ക് ശേഷം ആറാം അദ്ധ്യായത്തിലെ തുടക്കത്തിൽ മൂന്ന് ഡ്രമ്മർമാർ പരിഭ്രമത്തോടെ അവരുടെ ഡ്രമ്മിൽ കൊട്ടി കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഇതിനൊത്ത് അലറുന്നതും കൈ കൊട്ടുന്നതുമുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച് മാർലോ ബോട്ടിൽ നിന്ന് കണ്ടെന്ന് പറയുന്ന കിരാതൻമാരുടെ കയ്യടികളും കാൽ വെപ്പ് പോലെയും തോന്നിക്കില്ല കാരണം അച്ഛബേയുടെ നോവൽ ഡ്രമ്മർമാരുടെയും കാണികളുടെയും ഈ ഉന്മാദം ഒരു സന്ദർഭത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഈ രംഗം എത്തുമ്പോൾ ഇവയെല്ലാം ചേനയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവത്തിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം മാത്രമല്ല ജനക്കൂട്ടം അലറുകയും കയ്യടിക്കുകയും ചെയ്യുന്നത് അവർ ഭ്രാന്തന്മാർ ആയതു കൊണ്ടല്ല മറിച്ച് ചേന വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാർഷിക ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഗുസ്തിക്കാർക്ക് ആവേശം നൽകുകയാണ് ആഫ്രിക്കയെ കുറിച്ചുള്ള കൊളോണിയൽ പക്ഷപാദത്തിൽനിന്നും മുൻവിധികളിൽ നിന്നും എല്ലാം ഒഴിഞ്ഞുമാറാനും ആഫ്രിക്കൻ വീക്ഷണവുമായി സ്വയം ഒത്തുചേരാനും സഹായിക്കുന്നത് അച്ഛബേയുടെ നോവൽ നൽകുന്ന ഈ നാട്ടുകാരുടെ കാഴ്ചപ്പാടാണ് അടുത്ത ലെക്ച്ചറിൽ നമ്മൾ കൂടുതൽ വിശദമായി തിങ്സ് ഫാൾ അപ്പാർട്ട് പരിശോധിക്കും ഈ നോവൽ നമ്മളുടെ കൂടെ ചേർക്കുന്ന ആഫ്രിക്കൻ വീക്ഷണത്തെ കുറിച്ചും നമ്മൾ നോക്കും നമ്മൾ നോവലിലെ കഥാപാത്രങ്ങളെ കുറിച്ചും ഇതിവൃത്തത്തെ കുറിച്ചും സംസാരിക്കും എന്നിട്ട് നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ള പോലെ ആഫ്രിക്കൻ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ കൊളോണിയൽ ഇടപെടൽ എങ്ങനെയുണ്ടെന്നതും നോക്കും